നമ്മൾ ഇനി ബാക്ക്ട്രാക്കിംഗ് നോക്കും ബാക്ക്ട്രാക്കിംഗിൽ നമ്മൾ ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ക്രമാനുഗതമായി ഉത്തരം തിരയുന്നു ഒരു അന്തിമഘട്ടത്തിൽ എത്തുമ്പോൾ അവസാന ഘട്ടം ഒഴിവാക്കി അടുത്ത ഓപ്ഷൻ പരീക്ഷിക്കുക ഇപ്പോൾ ബാക്ക്ട്രാക്കിംഗ് പ്രക്രിയയിൽ നമ്മൾ എല്ലാ സാധ്യതകളും സൃഷ്ടിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് എല്ലാ രാജ്ഞികളെയും പ്രിന്റഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓരോ വരിയിലും ഓരോ രാജ്ഞിക്കും സാധ്യമായ എല്ലാ സ്ഥാനങ്ങളിലൂടെയും നമ്മൾ പോയി എന്ന് ഓർക്കുക അവിടെ ഒഴിവുണ്ടെങ്കിൽ നമ്മൾ അത് പരീക്ഷിച്ചുനോക്കി അതല്ല പരിഹാരം ഒരു അന്തിമ കേസിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മൾ അത് പ്രിന്റുചെയ്യുന്നു ഇപ്പോൾ 8 രാജ്ഞികൾക്കായി ലഭിക്കുന്ന ഉത്തരം പരിശോധിച്ചാൽ എല്ലാ വരിയിലുള്ള ഓരോ രാജ്ഞിയും മറ്റെല്ലാ രാജ്ഞികളിൽ നിന്നും വ്യത്യസ്തമായ നിരയിലാണ് കോളം നമ്പറുകൾ വായിച്ചാൽ വരിവരിയായി അത് 0 മുതൽ N മൈനസ് 1 വരെ ഉള്ള പെർമ്യൂട്ടേഷൻ ക്രമമാക്കും അതിനാൽ 0 മുതൽ N മൈനസ് 1 വരെയുള്ള ഓരോ സംഖ്യയും n രാജ്ഞികൾക്കുള്ള ഒരു കോളം നമ്പറായി കൃത്യമായി സംഭവിക്കുന്നു അതിനാൽ 8 രാജ്ഞികൾ പോലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ സമാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം യഥാർത്ഥത്തിൽ ഇതാണ് എല്ലാ പെർമ്യൂട്ടേഷൻ സൃഷ്ടിക്കുകയും ഒരു സമയം അതിൽ ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക ഇത് ഇനിപ്പറയുന്ന ചോദ്യത്തിന് കാരണമാകുന്നു നമുക്ക് 0 മുതൽ N മൈനസ് 1 വരെ ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അടുത്ത പെർമ്യൂട്ടേഷൻ എങ്ങനെ സൃഷ്ടിക്കും ഇത് അടുത്ത സംഖ്യയായി ചിന്തിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഇത് നിരവധി ചിഹ്നങ്ങളിൽ ആകാം നമുക്ക് a മുതൽ m വരെ അക്ഷരങ്ങളുണ്ടെന്ന് കരുതുക അക്ഷരമാലയിലെ ആദ്യത്തെ പതിമൂന്ന് അക്ഷരങ്ങളാണിവ പദങ്ങളുടെ നിഘണ്ടു ക്രമത്തെ അക്കങ്ങളുടെ ക്രമമായി നമ്മൾ കണക്കാക്കുന്നു അവ അക്കങ്ങളായി നമ്മൾ കരുതുന്നു അത് ബേസ് പതിമൂന്നാണെന്ന് നിങ്ങൾ കരുതുക ഉദാഹരണത്തിന് എ എന്നാൽ ബേസ് 13 ആയ ഒരു സംഖ്യ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു ക്രമത്തിൽ a മുതൽ m വരെ പുനക്രമീകരിക്കുക ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് ഇതിനുശേഷം അടുത്ത പുനക്രമീകരണം എന്താണ് നിങ്ങൾ ഉടൻ തന്നെ നിഘണ്ടു ക്രമത്തിൽ അടുത്തത് എടുക്കുക ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ആദ്യ നിരീക്ഷണം ഇതാകണം ഇത്തരം അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ അക്കങ്ങളുടെ ഒരു കൂട്ടം ഉണ്ട് എങ്കിൽ ഏറ്റവും ചെറിയ പെർമ്യൂട്ടേഷൻ എന്നാൽ ഈ ഘടകങ്ങൾ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആണ് അങ്ങനെ നമ്മൾ എ യിൽ നിന്ന് ആരംഭിക്കുന്നു അത് ഏറ്റവും ചെറുതാണ് പിന്നീട് ബി സി എന്നിങ്ങനെ പോകും ഇതിനേക്കാൾ ചെറിയ പെർമ്യൂട്ടേഷൻ ഇല്ല അതുപോലെ ഏറ്റവും വലിയ പെർമ്യൂട്ടേഷനിൽ എല്ലാ ഘടകങ്ങളും അവരോഹണ ക്രമത്തിലാണ് അതിനാൽ ഏറ്റവും വലിയ അക്ഷരം m ൽ നിന്ന് ആരംഭിച്ച് നമ്മൾ a ലേക്ക് പോകുന്നു അടുത്ത പെർമ്യൂട്ടേഷൻ കണ്ടെത്താൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ചെറിയ സഫിക്സ് കണ്ടെത്തേണ്ടതുണ്ട് അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാകണം ഒരു സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നത് എളുപ്പമാണ് പക്ഷേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഹ്രസ്വമായ സഫിക്സിൽ ഉള്ളത് അതിനെ തുടർന്ന് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഏറ്റവും ദൈർഘ്യമേറിയ സഫിക്സ് നമ്മൾ ഒരു ഉദാഹരണം ചെയ്യുമ്പോൾ ഇത് കുറച്ച് വ്യക്തമാകും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ദൈർഘ്യമേറിയ സഫിക്സ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സഫിക്സ് അത്രയും വലുതായിരിക്കാം അതിനർത്ഥം അത് ഇതിനകം തന്നെ അവരോഹണ ക്രമത്തിലാണെന്നാണ് അടുത്ത പെർമ്യൂട്ടേഷൻ നിർവ്വചിക്കാൻ മുമ്പ് ഉണ്ടായിരുന്ന ഉദാഹരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അഞ്ച് അക്ഷരങ്ങൾ o n m j i അവരോഹണ ഓർഡറുകളിലാണുള്ളത് അതിനാൽ ഇത് ഉപയോഗിച്ച് എനിക്ക് വലിയ പെർമ്യൂട്ടേഷൻ നടത്താൻ കഴിയില്ല ഞാൻ d മുതൽ k വരെയുള്ള അക്ഷരം എടുക്കുകയാണെങ്കിൽ d മുതൽ k വരെയുള്ള എനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പെർമ്യൂട്ടേഷൻ ഇതാണ് എനിക്ക് ഇത് മാറ്റാനും എന്തെങ്കിലും വർദ്ധിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ റെഡ് ബോക്സിനുള്ളിൽ എനിക്ക് ഇത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ ഏറ്റവും ചുരുങ്ങിയ സഫിക്സ് കണ്ടെത്തുന്നതിലേക്ക് ഞാൻ ഇത് വിപുലീകരിക്കണം k ഉപയോഗിച്ച് സഫിക്സ് ആരംഭിച്ചു അവിടെ എന്തെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഇത് എങ്ങനെ വർദ്ധിപ്പിക്കും ശരി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് k യുണ്ട് നമുക്ക് ഇതിലും മികച്ചത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് അതിനാൽ നമുക്ക് k യെ മാറ്റി വലിയ എന്തെങ്കിലും പകരം വയ്ക്കണം കൂടാതെ വലുത് എന്നാൽ നമുക്ക് പകരം വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമായിരിക്കണം അതിനാൽ k കഴിഞ്ഞുള്ള അടുത്ത വലിയ അക്ഷരമായ m ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും ഈ അക്ഷരങ്ങളിൽ mno എന്നിവ k നെക്കാൾ വലുതാണ് അത് j അല്ലെങ്കിൽ i ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചാൽ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു ചെറിയ പെർമ്യൂട്ടേഷൻ എനിക്ക് ലഭിക്കും അതിനാൽ എനിക്ക് mn അല്ലെങ്കിൽ o എന്ന് പകരം വയ്ക്കാം എന്നാൽ ഇവയിൽ ഞാൻ ഏറ്റവും ചെറുതാണ് m ഇപ്പോൾ സഫിക്സ് ആറാമത്തെ m എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ശ്രേണി ആരംഭിക്കുക എന്നാൽ ആ m എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സഫിക്സ് ഏറ്റവും ചെറുത് ആകണം അതായത് ഞാൻ ശേഷിക്കുന്ന അക്ഷരങ്ങൾ k o n j i എന്ന് ആരോഹണ ക്രമത്തിൽ എഴുതുക ഏറ്റവും ചെറിയ പെർമ്യൂട്ടേഷൻ നൽകാൻ m എന്ന അക്ഷരത്തിൽ തുടങ്ങി അതിനു ശേഷം k o n j i എന്ന അക്ഷരങ്ങളും പുനഃക്രമീകരിക്കുകയും ചെയ്യുക ഇത് എനിക്ക് ഈ പെർമ്യൂട്ടേഷൻ നൽകുന്നു ഞാൻ ഇപ്പോൾ ഈ എം ഇവിടെ നീക്കി അതിന് ശേഷം ഈ അക്ഷരങ്ങൾ എടുത്ത് അവ ആരോഹണ ക്രമത്തിൽ പുനക്രമീകരിക്കുന്നു ഇപ്പോൾ എനിക്ക് i j k n o എന്ന് കിട്ടി ഈ പെർമ്യൂട്ടേഷന്റെ അടുത്ത പെർമ്യൂട്ടേഷൻ ഇതാണ് എന്നാണ് ഇതിനർത്ഥം അൽഗോരിതം അനുസരിച്ച് നമുക്ക് ഇത് ഇനിപ്പറയുന്ന രീതിയിൽ ചെയ്യാൻ കഴിയും ആദ്യം ചെയ്യേണ്ടത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സഫിക്സ് ആദ്യം തിരിച്ചറിയുക എന്നതാണ് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സഫിക്സ് നോക്കിയാണ് നമ്മൾ ആരംഭിക്കുന്നത് അതായത് അവരോഹണ ക്രമത്തിൽ നമ്മൾ പിന്നിലേക്ക് പോകുന്നു മൂല്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അവ തിരയുന്നു i j നെക്കാൾ ചെറുതാണ് j m നെക്കാൾ ചെറുതാണ് m n നേക്കാൾ ചെറുതാണ് no നെക്കാൾ ചെറുതാണ് എന്നാൽ o k യെക്കാൾ വലുതാണ് ഇതിനർത്ഥം ഇവിടെ വരെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സഫിക്സ് ഉണ്ട് ഇതാണ് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാൻ കഴിയുന്ന ആദ്യ സ്ഥാനം ഇത് ചെയ്തുകഴിഞ്ഞാൽ k യെ അതിന്റെ വലതുവശത്തുള്ള അക്ഷരമുപയോഗിച്ച് മാറ്റി പകരം വയ്ക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ഓരോന്നായി ചേർക്കുന്നത് പോലെയാണ് k n നേക്കാൾ ചെറുതാണെന്ന് നമ്മൾ പറയുന്നു അതിനാൽ നമ്മൾ തുടരുന്നു k j നെക്കാൾ വലുതാണെന്ന് നമ്മൾ പറയുന്നു അതിനാൽ നമ്മൾ ഇവിടെ നിർത്തുന്നു m എന്ന അക്ഷരം ആണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്ന് ഇത് നമ്മോട് പറയുന്നു നമുക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും കാരണം ഇത് അവരോഹണ ക്രമത്തിലാണെന്നത് ഓർക്കുക ഇത് അടുക്കിയ ക്രമത്തിലാണ് അതിനാൽ നമുക്ക് അതിലൂടെ പരിശോധിക്കാം k യെക്കാൾ വലുതായ എന്തെങ്കിലും അതുപോലെ തന്നെ k യെക്കാൾ ചെറുതായത് വരുന്ന ആദ്യത്തെ സ്ഥാനം അതാണ് നമ്മൾ മാറ്റേണ്ട അക്ഷരത്തിന്റെ സ്ഥാനം അതിനാൽ ഇത് അടുക്കിയ പട്ടികയിൽ എന്തെങ്കിലും പിന്നീട് ഉൾപ്പെടുത്തുന്നതുപോലെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഈ m ഉം k ഉം പരസ്പരം മാറ്റി വച്ചു ഇപ്പോൾ ഇത് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാൽ ഇത് അവരോഹണ ക്രമത്തിലായിരുന്നുവെന്ന് ഓർക്കുക അവരോഹണ ക്രമത്തിൽ നമ്മൾ എന്തുചെയ്തു m നെ k കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു എന്നാൽ kയുടെ പ്രത്യേകത എന്താണ് k എന്നത് m നേക്കാൾ ചെറുതും j യേക്കാൾ വലുതും ആണ് ആയതിനാൽ o n k j i അവരോഹണ ക്രമത്തിൽ തുടരുന്നു നമുക്ക് ഇത് ആരോഹണ ക്രമത്തിലേക്ക് പെർമ്യൂട്ടേഷൻ ചെയ്യണമെങ്കിൽ അത് തരംതിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് തിരിച്ചെഴുതിയാൽ മതി നമുക്ക് പിന്നിലേക്ക് പോകണം അതായത് ഇത് ഇതിന്റെ വിപരീതം മാത്രമാണ് അടുത്ത പെർമ്യൂട്ടേഷൻ കണ്ടെത്തുന്നതിനുള്ള ഒരു നല്ല മാർഗമാണിത് അവസാനത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുക ഓർഡർ വർദ്ധിക്കുന്നത് നിർത്തുമ്പോൾ നിൽക്കുക ആദ്യം ഇത് കുറയുന്നിടത്താണ് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സഫിക്സ് തീർച്ചയായും നമ്മൾ എല്ലാ വഴികളിലൂടെയും പോയി ആദ്യത്തെ അക്ഷരത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടും അത്തരമൊരു സ്ഥാനം നമുക്ക് കണ്ടെത്താനായില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇതിനകം അവസാനത്തെ പെർമ്യൂട്ടേഷനിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അത്തരമൊരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഏത് അക്ഷരമാണ് സ്വാപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തുന്നു സ്ഥാനം കണ്ടെത്താൻ നമ്മൾ ചെയ്ത തിരയലിന് തുല്യമായി അത് കണ്ടെത്തുന്നു ഈ സാഹചര്യത്തിൽ സ്വാപ്പ് ചെയ്യാനുള്ള സ്ഥാനം കണ്ടെത്തുന്നുനമ്മൾ സഫിക്സ് എടുക്കുന്നു m ഉപയോഗിച്ച് k അത് മാറ്റിയതിനുശേഷം ഏറ്റവും ചെറിയ പെർമ്യൂട്ടേഷൻ ലഭിക്കുന്നതിന് നമ്മൾ അത് വിപരീതമായി എഴുതുന്നു